കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ കഴിഞ്ഞ തവണ ഇത് റിവൈസ് ചെയ്തു പക്ഷേ ഞാൻ ഒരു ബ്രീഫ് റിവിഷൻ എന്നിവ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓപ്പറേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇവ പ്രധാന വരുമാനമുണ്ടാക്കുന്ന ആക്റ്റിവിട്ടികൾ ആയിരുന്നു ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്റ്റിവിറ്റിയുടെ വെല്ലുവിളി ഡയറക്ട് മെത്തേഡിലൂടെ ആകാം ഈ ഫോർമാറ്റ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ P and L എന്നിവയിൽ നിന്ന് ആരംഭിക്കുന്ന ഇൻഡയറക്ട് മെത്തേഡിലൂടെയും എന്നിവ തുടർന്ന് ഓപ്പറേറ്റിങ് ആക്റ്റിവിറ്റികളിൽ നിന്ന് ക്യാഷ് ഫ്ലോ ലഭിക്കുന്നതിന് വർക്കിങ് ക്യാപിറ്റൽ ഐറ്റംസും ലിസ്റ്റ് ചെയ്തു തുടർന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രണ്ടാമത്തെ ഹെഡ് നമ്മൾ ചർച്ച ചെയ്തു ഫിക്സെഡ് അസ്സറ്റുകളോ ഇൻവെസ്റ്റ്മെൻറ്റുകളോ നിമിത്തം ഏത് നിമിഷവും ഇൻവെസ്റ്റിംഗ് ആക്റ്റിവിറ്റി ആയി തരംതിരിച്ചിരുന്നു ഫിനാൻസിംഗ് ആക്റ്റിവിറ്റിയെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവ ഫൈനൻസിങ് ആക്റ്റിവിറ്റിയുടെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇവ ഇക്വിറ്റിയിലോ ബോറോയിങ്ങുകളിലോ ഉള്ള മൂവ്മെന്റ് ആണ് ഏതെങ്കിലും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഷെയർ പർചെയ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അല്ലെങ്കിൽ പർചെയ്സ് ഓഫ് ഡിബെഞ്ചർ അല്ലെങ്കിൽ ലോൺ എടുക്കുക അല്ലെങ്കിൽ ലോൺ ഇൻസ്റ്റാൾമെന്റ് ലോൺ റീപെയ്മെന്റ് എന്നിവയെല്ലാം ഫൈനൻസിങ് ആയി കണക്കാക്കുന്നു അതിൽ രണ്ട് യുണീക്ക് ഐറ്റംസ് ഓർമ്മിക്കുക എല്ലാ ഇഡ്രെസ്റ്റും ഒരു ബാങ്ക് പോലുള്ള ഒരു സംരംഭത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അത് ഒരു ഓപ്പറേറ്റിംഗ് ഫ്ളോ ആണ് ഇഡ്രെസ്റ്റിനെ സാധാരണയായി നൽകുന്നത് പോലും ഒരു ധനകാര്യ പ്രവർത്തിയാണ് എന്നാൽ വർക്കിങ് ക്യാപിറ്റൽ ലോണിന് അത് ഒരു ഓപ്പറേറ്റിംഗ് ആക്റ്റിവിറ്റി തന്നെയാണ് ഒരു ഫിനാൻസ് എന്റർപ്രൈസസിന് ഇത് ഒരു ഓപ്പറേറ്റിംഗ് ഫ്ലോ ആയി തരം തിരിക്കും ഡിവിടെൻറ്റിനെ എക്സെപ്ഷൻ ഇല്ലാതെ ഇത് വളരെ ലളിതമാണ് നമ്മൾ അതിനെ ഒരു ഫിനാൻസിംഗായി തരംതിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെരണ്ട് കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ദയവായി ഡിസ്കഷൻ ഫോറത്തിൽ ചർച്ച ചെയ്യുക അതിനാൽ TA യോട് ചോദിക്കുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം പഠിക്കുന്ന മറ്റെല്ലാ സഹപ്രവർത്തകരോടും ചോദിക്കാം രണ്ടാമത്തെ പ്രധാന കാര്യം നിങ്ങളുടെ ആനുവൽ റിപ്പോർട്ട് ചില ഐറ്റംസ് നോക്കാം ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡോമെസ്റ്റിക്ക് കറൻസിയിലായിരിക്കില്ല ആയി കാണിക്കും ഇപ്പോൾ ഫോറിൻ എക്സ്ചെയ്ൻജ് ഐറ്റംസിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ക്യാഷ് ഫ്ലോ എക്സ്ട്രാ ഓർഡിനറി ചില വലിയ നഷ്ടങ്ങൾ ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഏത് ഹെഡിന് കീഴിലാണ് നിങ്ങൾ ഒരു ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ആയി തരം തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് നോക്കണം സ്റ്റോക്ക് ഫയർ കൊണ്ട് നഷ്ടപ്പെട്ടുവെന്ന് കരുതുക അപ്പോൾ ആ നഷ്ടം നിങ്ങൾ ക്യാഷ് ഫ്ലോയിൽ കാണിക്കുംഎങ്കിൽ ഏത് ഹെഡിന് കീഴിലാണ് ഒന്നാമതായി ഇതൊരു നോൺ ക്യാഷ് ഐറ്റം ആയതിനാൽ വരാനിരിക്കുന്ന ക്യാഷ് ഫ്ലോയിൽ അത് ഫ്ലോ ചെയ്യുകയില്ല എന്നാൽ സ്റ്റോക്ക് നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം നഷ്ടപ്പെട്ടതിനാൽ അത് ഒരു ഓപ്പറേറ്റിംഗ് ഐറ്റം ആയി കണക്കാക്കും അത് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഐറ്റം ആയി പോകുമോ ചില സാഹചര്യങ്ങളിൽ ഫയർ സ്റ്റോക്കും ആണിത് മെഷിനറി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എന്തുതന്നെയായാലും ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി കാരണം ക്യാഷ് ഫ്ലോ ആയി കണക്കാക്കപ്പെടും അത് ബന്ധപ്പെട്ട ഒരു വസ്തുവായി അറിയപ്പെടുന്നത് വൈകിയാലും ശരിമനസ്സിലായോഇപ്പോൾ ഞാൻ അത് സ്ക്രീനിൽ കാണിക്കുന്നു അതിനാൽ പ്രസക്തമായ ഒരു ഐറ്റം സാധാരണയായി അത് ഓപ്പറേറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഇപ്പോൾ അടുത്തത് ടാക്സിന്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് സാധാരണയായി ടാക്സ് ഒരു ഓപ്പറേറ്റിങ് ഐറ്റം ആണ് അതിനാൽ ടാക്സ് അടയ്ക്കുന്നതെന്തും നമ്മൾ അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയി കാണിക്കും ബന്ധപ്പെട്ട ഇനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഫിനാൻസിങ് നൽകുന്നതിനോ ചില പ്രത്യേക ടാക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഹെഡിന് കീഴിൽ ഉൾപ്പെടുത്തും അതിനാൽ ഡിവിഡന്റ് നൽകുമ്പോഴെല്ലാം നമുക്ക് ഡിവിഡന്റ് ടാക്സ് ആണ്ആ ഡിവിഡന്റിന് നമ്മൾ ടാക്സ് നൽകേണ്ടിവരും അതിനാൽ ഡിവിഡന്റിന്റെ ടാക്സ് ഒരു ഫിനാൻസിംഗ് ഫ്ലോ ആയി തരംതിരിക്കും ഡിവിഡന്റ് ആദ്യം ഫിനാൻസിങ് ആണെന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതിനാൽ ടാക്സും ഫിനാൻസിങ് ആണ് ഇനി അടുത്തത് അനുബന്ധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ക്യാഷ് ഫ്ലോയെ കുറിച്ചാണ് ഇപ്പോൾ സബ്സിഡിയറി കാണിക്കും

ഇപ്പോൾ അടുത്തത് വിവിധ ബിസിനസുകൾ ഏറ്റെടുക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ മറ്റൊരു കമ്പനി സ്വന്തമാക്കി അവിടെ പണമടച്ചാൽ അത് ഒരു ഇൻവെസ്റ്റിങ് ആക്റ്റിവിറ്റി ആയി കണക്കാക്കും പക്ഷേ ഇൻവെസ്റ്റിങ് ആക്റ്റിവിറ്റിക്ക് അത് സപ്പറേറ്റ് പേ ചെയ്താൽ അത് പ്രത്യേകം ഉൾപ്പെടുത്തണം ഇപ്പോൾ അടുത്തത് നോൺ ക്യാഷ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില ട്രാൻസാക്ഷനുകൾ ഉണ്ട് കാരണം അവ നോൺ ക്യാഷ് ചെയുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ പുതിയ അസ്സറ്റുകൾ വാങ്ങുക സാധാരണ നാം ഫിക്സെഡ് അസ്സറ്റുകൾ വാങ്ങുകയും അതിനായി പണം നൽകുകയും ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഔട്ട് ഫ്ലോ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതിനാൽ ക്യാഷ് പെയ്മെന്റോ റെസിപ്റ്റോ ഉൾപ്പെടുന്നില്ല അതിനാൽ ഇത് ക്യാഷ് ഫ്ലോയിൽ ഉൾപ്പെടില്ല അതുപോലെ ചിലപ്പോൾ നാം മറ്റൊരു കമ്പനി വാങ്ങുന്നു പക്ഷേ ക്യാഷ് പേ ചെയ്യുന്നില്ല ഷെയറുകളുടെ രൂപത്തിൽ പേയ്മെന്റ് നടത്തുക അതിനാൽ നമ്മുടെ ഷെയറുകൾ നൽകുന്നതിനുപകരം എന്റർപ്രൈസസിന്റെ ബിസിനസ്സ് നമുക്ക് ലഭിക്കും അതിനാൽ നമ്മുടെ അസ്സറ്റുകൾ വർദ്ധിക്കുന്നു ലയബിലിറ്റി കൻവേർട്ട് ചെയ്യുക എന്നതാണ് ഇപ്പോൾ കൺവെർട്ടബിൾ ഡിബഞ്ചറുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അവ ക്യാഷ് ഫ്ലോ ആയി കണക്കാക്കരുത് ഇപ്പോൾ അവസാനം നിങ്ങൾ ക്യാഷും ക്യാഷ് ഇക്വലൻറ്റും വെളിപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ തുടക്കത്തിലും അവസാനത്തിലും നിങ്ങൾ ടോട്ടൽ ക്യാഷും ക്യാഷ് ഇക്വലൻറ്റും ഒരു റീകൻസിലിയേഷനും ഉൾപ്പെടുത്തണം കാരണം ക്യാഷ് ഫ്ലോ സ്റ്റയ്ട്ട്മെന്റിൽ ചെയ്യുകയും അത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റുമായും മാച്ച് വേണം എകൌണ്ടിംഗ് പ്രിൻസിപ്പലിന് അനുസൃതമായി ചില വെളിപ്പെടുത്തലുകളും ഉണ്ട് ഒന്ന് എന്റർപ്രൈസസിന് ക്യാഷും ക്യാഷ് ഇക്വലൻറ്റും ഉണ്ട് എന്നാൽ ബാക്കി ക്യാഷ് ഉപയോഗത്തിന് ലഭ്യമല്ല അത് പ്രത്യേകമായി തന്നെ നാം വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത്തരം ഏതെങ്കിലും ഇനത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് വഴി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോൺ പിൻവലിക്കാൻ കഴിയും അത് നമുക്ക് ക്യാഷ് ഇക്വലൻറ്റ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അത് പിൻവലിച്ചിട്ടില്ല അപ്പോൾ ഇവ ലഭ്യമായ ബാലൻസുകൾ പോലെയാണ് അതിനാൽ അവ നോട്ടിൽ ഉൾപ്പെടുത്തണം പക്ഷേ അവ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ അവയും ചർച്ച ചെയ്യപ്പെടണം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇപ്പോൾ ഇതിനുശേഷം നമ്മൾ ചില ഫോർമാറ്റുകളിലേക്ക്പോകുകയും ചെയ്യും ആദ്യം നമുക്ക് ചില ഫോർമാറ്റുകൾ നോക്കാം ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസിംഗ് ഐറ്റംസ് എന്നിവ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചേക്കാം എന്നാൽ ക്യാഷ് ഫ്ലോ ഐറ്റംസ് അത് എങ്ങനെയാണ് വെളിപ്പെടുത്തുക എന്ന് ആക്ടുവൽ ഫോർമാറ്റ് നോക്കാം നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്ന ഓപ്പറേഷനുകളിൽ നിന്ന് സൃഷ്ടിച്ച ക്യാഷിനുള്ള ഒരു ഫോർമാറ്റാണിത് എന്നാൽ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആണ് അതിനാൽഅത് റീ റ്റെയ്ൻഡ് ഏർണിങ്സിൽ നിന്ന് തുടങ്ങുന്നു add dividend you get net profit after tax keep in mind normally in P and L account your incomes minus expenses the last item is profit Here we start with profit and go to cash from operations add the tax expenses for the year you get net profit before tax then add non cash items അതിനാൽ ഗുഡ് വിൽ റിട്ടൻ ഓഫ് അല്ലെങ്കിൽ ഇൻഡ്രെസ്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡിവിടെൻറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുന്നു അതിനാലാണ് ഇത് ബ്രാക്കറ്റിൽ കാണാനാകുന്നത് ഓപ്പറേഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കുകയും തുടർന്ന് വർക്കിങ് ക്യാപിറ്റൽ ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിനാൽ കറന്റ് അസറ്റുകളിൽ കുറയുകയോ കറന്റ് ലാബിലിറ്റി ഇൻക്രീസ് ആയിരിക്കും നോക്കൂ ക്യാഷും ഒരു കറന്റ് അസറ്റാണ് അതിനാൽ മറ്റ് കറന്റ് അസറ്റുകളുമായി കൊമ്പറ്റീഷനിൽ ആണ് മറ്റ് കറന്റ് അസറ്റുകലിലെ ക്യാഷ് തെറ്റാണെങ്കിൽ അതുകൊണ്ടാണ് കറന്റ് അസറ്റിലെ വർദ്ധനവ് കുറയുന്നത് നിലവിലെ ലയബിലിറ്റി കുറവുണ്ടെങ്കിൽ ക്യാഷ് കുറയുന്നു അതിനാൽ ക്യാഷും കറന്റ് ലാബിലിറ്റികളും ഒരുമിച്ച് പോകുമ്പോൾ കറന്റ് ലാബിലിറ്റിയിലെ ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ ഐറ്റംസ് അഡ്ജസ്റ്റ് ആകും നിങ്ങൾക്ക് തീർച്ചയായും ഓപ്പറേഷനിൽ നിന്ന് പണമുണ്ടാക്കാം നിങ്ങൾ ഇപ്പോൾ ഇൻകം ടാക്സ് കുറയ്ക്കേണ്ടതുണ്ട് അതിനാൽ ഓപ്പറേറ്റിങ് ആക്റ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ലഭിക്കും ഇത് ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡ് ആണ് രണ്ടാമത്തേതും മൂന്നാമത്തേതും വളരെ ലളിതമാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആക്റ്റിവിറ്റികളിൽ നിന്നുള്ള ക്യാഷ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അടുത്തത് ഫിനാൻസിംഗ് ആക്റ്റിവിറ്റികളിൽ നിന്നുള്ള ക്യാഷ് ആണ് നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ അറിയാമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഡയറക്റ്റ് ആയി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയി ഐറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യാൻ കഴിയും അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തരത്തിലുള്ള ആക്റ്റിവിറ്റി ലഭിച്ചു so you get net increase or decrease of cash which is a total of 1 plus 2 plus 3 Then you add cash and cash equivalents at the beginning so you get cash and cash equivalent at the end ok Now here it should match the total increase plus beginning should be what is there in the end ഇപ്പോൾ ഇതുകൂടാതെ നിങ്ങൾ ബാലൻസുകളുടെ റീ കൻസിലിയേഷൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ക്യാഷ് വാലിയൂക്യാഷ് ബാലൻസ് ക്യാഷ് ഇക്വാലെൻഡ് എന്നിവ ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റിൽ റീ സ്റ്റെയറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ് ഇക്വാലെൻഡ് ആയി കണക്കാക്കുന്ന ക്യാഷ് ബാങ്ക് ഷോർട്ട് റ്റേം ഇൻവെസ്റ്റ്മെൻറ്റിന്റെ തുടക്കത്തിലും അവസാനത്തിലും ബാലൻസ് ഉൾപ്പെടുത്തും അതിനാൽ നമ്മൾ ഫോർമാറ്റ് ചർച്ച ചെയ്തു ഇപ്പോൾ നമ്മൾ യഥാർത്ഥ കേസിലേക്ക് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഗൂഗിൾ ലിങ്കിൽ കേസുകൾ ലഭ്യമാകും എന്നാൽ ഇപ്പോൾ ഞാൻ അവ ഇവിടെ കാണിക്കുന്നു അത് ശ്രദ്ധാപൂർവ്വം വായിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കും അതിനാൽ നമുക്ക് profit and loss account നൽകിയ കേസ് നോക്കാം അതിനാൽ ടോട്ടൽ ഇൻകം ആയ 215000 സെയിൽസും ഇൻഡ്രസ്റ്റും നൽകുന്നു തുടർന്ന് പർചെയ്സ് വേജസ് ഇൻഡ്രസ്റ്റ് ഡിപ്രിസിയേഷൻ ഓഫിസ് എക്സ്പെൻസ് ഗുഡ് വിൽ ടാക്സ് ഡിവിടെൻറ്റ് എന്നിങ്ങനെ വിവിധ ചെലവുകൾ നൽകും അതിനാൽ നിങ്ങൾക്ക് നെറ്റ് പ്രൊഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു അതിനുശേഷം ബാലൻസ് ഷീറ്റ് തുറക്കുന്നതും അടയ്ക്കുന്നതും ശരി അതിനാൽ ലാബിലിറ്റി സൈഡ് നിങ്ങൾക്ക് നൽകും തുടർന്ന് അസറ്റ് സൈഡ് നിങ്ങൾക്ക് നൽകും അതിനാൽ വർഷാവസാനം നിങ്ങൾക്ക് P and L ലഭിച്ചു തുടർന്ന് ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതും ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്നതും ഇത്രയും വിവരങ്ങൾ ഉപയോഗിച്ച് ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റ് തയ്യാറാക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ടുപോകും ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയെ സംബന്ധിച്ചിടത്തോളം ഇനി P and L സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക അതിനാൽ നമ്മൾ നെറ്റ് പ്രൊഫിറ്റിൽ ചെയ്യുക അവർ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നൽകും ബാലൻസ് ഷീറ്റ് ഐറ്റം കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ബാലൻസ് ഷീറ്റ് ഇനത്തിലെ ഏത് മാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഇൻവെസ്റ്റ്മെന്റിലേക്കും ഫിനാൻസിംഗിലേക്കും മാറുന്നു തീർച്ചയായും ബാലൻസ് ഷീറ്റിൽ കുറച്ച് ഇനങ്ങൾ ഉണ്ടാകും അത് ഓപ്പറേഷനേയും ബാധിക്കും അതിനാൽ അവയെക്കുറിച്ച് നിങ്ങൾ മറക്കരുത് അതിനാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചുള്ള മാറ്റം നോക്കാം ഒരു നോട്ട്ബുക്ക് എടുത്ത് ആ പ്രത്യേക മാറ്റം ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ ഫൈനൻസിങ് ആണോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആ ജോലിയുടെ ബാക്കി വളരെ ലളിതമായി ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലറിക്കൽ ജോലിയാണ് നിങ്ങൾക്കത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റായി ഫോർമാറ്റിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് So please try to solve with me now the first item share capital there is a increase from 160000 to 190000 നിങ്ങൾ മുഴുവൻ ബാലൻസ് ഷീറ്റും എഴുതേണ്ടതില്ല പക്ഷേ AC അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ട്ടേം എഴുതുക ഏത് തരം ഐറ്റം ആണെന്ന് ശ്രദ്ധിക്കുകഅത് ഓപ്പറേറ്റിങ് ഐറ്റം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഐറ്റംഅല്ലെങ്കിൽ ഫിനാൻസ് ഐറ്റം ആണ് അതിനാൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന AC എഴുതുക അല്ലെങ്കിൽ F എഴുതാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു അതിനാൽ ഇത് ഏത് തരത്തിലുള്ള ഫ്ലോ ആണെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ കഴിയുമോ See there is a movement from 160 it has increased to 190 അതിനാൽ ഇത് ഒരു തരത്തിലുള്ള ക്യാഷ് ഫ്ലോ ആണ് ഇത് ഒരു ഓപ്പറേറ്റിങ് ആണോ ഉത്തരം അല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഷെയർ കാപ്പിറ്റലിന് ഡേ റ്റു ഡേ ബിസിനസുമായി യാതൊരു ബന്ധവുമില്ല അത് ഇൻവെസ്റ്റ്മെന്റ് ആണോ വീണ്ടും ഉത്തരം അല്ല എന്നാണ് കാരണം നാം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല ചില ഷെയർ ഹോൾഡർമാർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് നാം അവർക്ക് ഷെയർ നൽകിയിട്ടുണ്ട് അതിനാലാണ് നമ്മുടെ ഷെയർ കാപ്പിറ്റൽ ബാലൻസ് വർദ്ധിച്ചത് So it is not o not i it is a f type of item that is financing item please note it as f അതിനാൽ നിങ്ങൾ F എഴുതുന്നതിനുമുമ്പ് കാപ്പിറ്റൽ പങ്കിടുക ഇത് ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ ആണോ ഷെയർ കാപ്പിറ്റൽ ബാലൻസ് വർദ്ധിച്ചതായി കാണുന്നതിനെ നാം ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആയി എഴുതുന്നതാണ് നല്ലത് അതിനാൽ നമുക്ക് പണം ലഭിച്ചു നമ്മൾ അവർക്ക് ഷെയറുകൾ നൽകി അത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെന്റ് ആണ് അതിനാൽ ക്യാഷ് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു യഥാർത്ഥത്തിൽ ക്യാഷ് കൂടുകയാണ് ചെയ്തത് അതിനാൽ വർക്കിങ് നോട്ടിനായി എന്ന് കൊടുക്കാം Now this is not profit and loss account this is a balance of P and L account which as increase from 9000 to 2200 So it is which type of item actually if you do 22 minus 9 there is a increase of 13000 you can see here net profit actually this is not even net profit this is a profit which is transferred to balance sheet ok So 13000 is added to the balance of P and L in the balance sheet so it is what type of item This is increases because of the profit generated so it is a o type of item So right now you just mark it as o we will when we solve our operating we will take it into account but right now let us mark it as o Next is debentures debenture balance has reduced from 80000 to 51000 now you will categorize it as which type of item ചില മൂവ്മെന്റുകൾ സംഭവിച്ചതായി കാണുക ബാലൻസ് കുറയുന്നു അതിനാൽ നമ്മൾ ഡിബൻജറുകൾവീണ്ടെടുക്കണം we have paid money and cancelled part of the debentures of how much amount 29000 which is a difference So it is which type of item is it o or i or f it is not o its not day to day item it is neither I it is not our investment it is f item we had raised money by way of debentures now we are repaying it So mark it as f is it inflow or outflow it is basically an outflow we are making payment so mark it as f outflow Next one is creditors from 20 they have increased to 40 so it is what type of item If you remember it is required for a calculating our operating flows this is a working capital item So mark it as o if want you can also say its working capital w cap or something can write but basically it is a o item it is not a direct inflow or outflow Next is proposed dividend now this is a tricky item it has increased from 2 to 3 it is what type of item Is it o No is it i No it is f I think you remember we have discussed that payment of dividend is always f how much amount 2000 or 3000 or 1000 കൂടുതലും വ്യത്യാസം ക്യാഷ് ഫ്ലോ ആണ് എന്നാൽ ഇവിടെ അത് വ്യത്യാസമല്ല കഴിഞ്ഞ വർഷത്തെ തുക മുഴുവൻ അടച്ചിട്ടുണ്ടാകും P and L എന്നിവയും നോക്കുക അതിൽ നിങ്ങൾക്ക് ഡിവിടെൻഡ് അവസാനത്തിൽ നമ്മൾ ഉണ്ടാക്കി a proposed dividend of 3 it is this amount and last year's 2000 last year means on 31st march 2019 200 would have been provided they would have already paid it and for this year new 3000 has been provided So the entire amount of 2000 this is a special item please mark it carefully so this 2000 is f outflow it is a financing item it is a outflow 3000 is not outflow it is basically a P and L item So you can write it as a o see dividend is a very special item it is going to come two times this is f outflow and 3000 is o we will consider it when we look at P and L account ഇപ്പോൾ നമ്മൾ അൻസറിൽ കാണാൻ പോകുന്ന ലാബിലിറ്റി ഐറ്റെംസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നാം ഇത് ഒരുമിച്ച് പരിഹരിക്കും ഇപ്പോൾ നമ്മുടെ അസറ്റുകളിലേക്ക് പോകുംആദ്യ ഐറ്റം ലാൻഡ് ലാൻഡിന് മാറ്റമില്ല so dash fixed assets there is a fall in fixed asset from 140 to 190 1 അവിടെ നടന്നത് വിൽക്കാൻ കഴിയും പക്ഷേ അത് തെറ്റായേക്കാം കാരണം ഡിപ്രിസിയേഷൻ ഉണ്ട് So depreciation of 9000 it matches here so there is a reduction in the value of fixed asset no purchase or no sale so probably it is dash We will look at it once again investment 59000 increasing to 1 1 1 അതിനാൽ അത് ഏത് തരത്തിലുള്ള ഇനമാണ് നമ്മൾ പേയ്മെന്റ് വർദ്ധിക്കുകയും നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു അതിനാൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന്റെഫ്ലോ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് മാർക്ക് ചെയ്യുക Next is sundry debtors 12 to 17 what type of item It is a working capital item or o item so mark it as o and we will adjust it in the operating flow Next is bank what type of item it is Actually it is a tricky item is not an item it is a cash equivalent So write its c c for cash goodwill goodwill you can see it has fallen from 30 to 19 normally goodwill falls because of amortization So we will have to look in P and L account you can see here goodwill written off 11000 so 30 to 19 the difference is because of goodwill return of right now you can mark it as a o item അതിനാൽ ബാലൻസ് ഷീറ്റിന്റെ എല്ലാ മാർക്കിങ്ങുകളുംനിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇപ്പോൾ P and L അക്കൌണ്ടിനെ സംബന്ധിച്ചിടത്തോളം with net profit and go back adjusting these items as per our format they can be plus or minus for few items which are non operating or non profit അതിനാൽ നമ്മൾ ഇപ്പോൾ സൊലിയൂഷനിലേക്ക് ശ്രദ്ധിക്കാം ആദ്യ ഭാഗം മാത്രം ട്രിക്കിആണ് ഇപ്പോൾ ഇവിടെ നാം ഓപ്പറേറ്റിങ് ഫ്ലോ ആരംഭിക്കുന്നു So please have a look at P and L we are go in the reverse order we start with profit add dividend add tax add goodwill like that we go on adding the items which are these two are added because their financing item ഫിനാൻസിംഗ് ഐറ്റം ഇതാണ് ഫിനാൻസിംഗ് ഐറ്റം ടാക്സ് എന്നത് ഗുഡ്വിൽ റൈറ്റൻ ഓഫ് ഡിപ്രിസിയേഷൻ ആണ് കാണിച്ചുതരാം So retained earnings plus dividend give you profit as per P and L account which is 16000 add depreciation add goodwill add interest expense add income tax add and reduce interest income See here in P and L we had a interest income of 15000 which was added for P and L now we will reduce it ഇത് അൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഫോർമാറ്റ് അനുസരിച്ച് ഓപ്പറേഷനുകളിൽ നിന്ന് ഫണ്ട് നൽകുന്നു ഇപ്പോൾ ഓപ്പറേഷനുകളിൽ നിന്നുള്ള ഫണ്ടുകളിൽ നമ്മൾ വർക്കിങ് ക്യാപിറ്റൽ ഐറ്റംസ് ക്രമീകരിക്കാൻ പോകുന്നു so add increasing debtors and less sorry add increase in creditors and less increase in debtors this gives me cash generated from operations now income tax will come twice because here income tax provided was added Now this one this amount 37000 same amount of tax is also paid that is why I will pay out the income tax income ടാക്സ് പേ ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് വളരെ ലളിതമാണ്പക്ഷെ ഓപ്പറേറ്റിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്നിങ്ങൾ ഇതിനകം രണ്ട് ഐറ്റംസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പർചെയ്സ് ചെയ്യുന്നത് so it is less and interest income is our income so you add it getting it So 37000 negative is a investing activity the next is financing activity say very simple again four items issue of share is a receipt dividend redemption and interest is a payment So financing activities negative 15000 now the total of three all the three items so we had taken 50000 as a operating activities and minus 37 as a flow from investing and minus 15 as a flow from financing If you add these 3 there is a net reduction of 2000 so net decrease in cash Then go to balance sheet balance sheet has a opening bank balance of 5000 and closing bank balance of 3000 So if you take minus 2 plus 5 you will get 3000 so here the cash flow statement tallies We will also make a reconciliation in the beginning and end there is only one item so beginning is 5000 end is 3000 So we already knew that there is a fall of 2000 from balance sheet in the bank balance now we have explained it through cash flow statement ഇപ്പോൾ നാം അത് ക്യാഷ് ഫ്ലോ സ്റ്റയ്റ്റ്മെൻറ്റിലൂടെ വിശദീകരിച്ചു നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രോബ്ലെവും സൊലിയൂഷനും ഒരിക്കൽ കൂടി നോക്കുക ഇത് ഒരു സ്റ്റാർട്ടിങ്ങും സിംപിൾ ആയ പ്രോബ്ലവും ആണ് ഇത് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റയ്ട്ട്മെന്റിനെക്കുറിച്ച് ശരിയായ ഇൻസൈറ്റ് നൽകും അതിനാൽ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുന്നുനമസ്തേ